ഇന്നത്തെ സെഷനിൽ നമ്മൾ കൺവല്യൂഷൻ ഇന്റഗ്രലിനെക്കുറിച്ച് ചർച്ച ചെയ്യും നമ്മളുടെ സർക്യൂട്ട് വിശകലനത്തിൽ കൺവല്യൂഷൻ ഇന്റഗ്രൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ കാണും നമുക്ക് ആദ്യം എന്താണ് കൺവല്യൂഷൻ ഇന്റഗ്രൽ എന്ന് മനസിലാക്കാം കൺവല്യൂഷൻ എന്ന വാക്കിന്റെ അർത്ഥം മടക്കുക മടക്കുക എന്നാൽ ഒരു പ്രത്യേക ഫംഗ്ഷന്റെ പ്രതിബിംബം എടുക്കുകഅത് അർത്ഥമാക്കുന്നത് നിങ്ങൾ y അക്ഷത്തിൽ മടക്കുന്നു എന്നാണ് കൺവല്യൂഷൻ ഇന്റഗ്രൽ എന്ന പദം ആ ആശയത്തിൽ നിന്നാണ് വന്നത് അതിനർത്ഥം എന്താണെന്ന് കൺവല്യൂഷൻ ഇന്റഗ്രൽ വിശദമായി ചർച്ച ചെയ്യുമ്പോൾ നോക്കാം ഈ ഇന്റഗ്രൽ എഞ്ചിനീയർമാർക്ക് വളരെ പ്രധാനപ്പെട്ട ഉപകരണമാണ് കാരണം ഇത് ഭൌതിക സംവിധാനങ്ങൾ കാണാനും സ്വഭാവരൂപമാക്കാനുമുള്ള മാർഗ്ഗങ്ങൾ നൽകുന്നു ഉദാഹരണത്തിന്നമ്മുടെ മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത h എന്ന ഒരു പ്രത്യേക സിസ്റ്റത്തിന്റെ ഇംപൾസ് പ്രതികരണം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഏത് സിസ്റ്റത്തിന്റെയും x കൊടുക്കുമ്പോൾ ഉളള y പ്രതികരണം കണ്ടെത്താനാകും ഒരു സിസ്റ്റത്തിന്റെ പ്രതികരണം കണ്ടെത്താൻ അതിന്റെ ഇംപൾസ് പ്രതികരണം അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതും ശക്തവുമായ ഒരു അവിഭാജ്യ ഘടകമാണ് കൺവല്യൂഷൻ ഇന്റഗ്രലിന്റെ നിർവചനം ഇതാണ്

നിങ്ങളുടെ ഇംപൾസ് പ്രതികരണമാണ് ഒരു ഡമ്മി വേരിയബിളാണ് എന്നത് ആണ് നിങ്ങൾ യുടെ പരിവർത്തനമെടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതികരണം ലഭിക്കും ഈ ഇന്റഗ്രലിനെ ഒരു കൺവല്യൂഷൻ ഇന്റഗ്രൽ എന്ന് വിളിക്കുന്നു ഇതിനെ എന്ന് സൂചിപ്പിക്കാം അതിനാൽ അടിസ്ഥാനപരമായി എന്നത് xh ഫംഗ്ഷനുകളുടെ കൺവല്യൂഷൻ ആണെന്നും മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ ചർച്ച ചെയ്ത ഡമ്മി വേരിയബിൾ ആണെന്നും ഇത് കൺവല്യൂഷൻ ആയിരിക്കും എന്നും നമുക്ക് പറയാൻ കഴിയും അടിസ്ഥാനപരമായി നക്ഷത്രചിഹ്നം രണ്ട് ഫംഗ്ഷനുകളുടെ കൺവല്യൂഷനെ പ്രതിനിധീകരിക്കും ഇപ്പോൾ മുകളിലുള്ള സമവാക്യം പറയുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷനുമായി സംയോജിപ്പിച്ച ഇൻപുട്ടിന് തുല്യമാണെന്നാണ് അതിനാൽ യൂണിറ്റ് ഇംപൾസ് പ്രതികരണം അറിയുമ്പോൾ സിസ്റ്റത്തിന്റെ പ്രതികരണം കണ്ടെത്താൻ കഴിയും കൺവല്യൂഷൻ പ്രോസസ്സ് കമ്മ്യൂട്ടേറ്റീവ് ആണ് അതിനർത്ഥം നിങ്ങൾ xh എന്നിവയുടെ സ്ഥാനങ്ങൾ പരസ്പരം മാറ്റുകയാണെങ്കിൽ ഔട്ട്പുട്ട് മാറാൻ പോകുന്നില്ല അതായത് xh എന്നിവയുടെ കൺവല്യൂഷൻ hx എന്നിവയുടെ കൺവല്യൂഷന് തുല്യമായിരിക്കും ഇന്റഗ്രൽ രൂപത്തിൽ നിങ്ങൾ പ്രതിനിധീകരിച്ചാൽ അതായത് രണ്ട് ഫംഗ്ഷനുകൾ സംയോജിപ്പിച്ചിരിക്കുന്ന ക്രമം അപ്രധാനമാണ് ഇപ്പോൾ കൺവല്യൂഷൻ എന്ന പദം നിങ്ങൾ എങ്ങനെ നിർവചിക്കും സിഗ്നലുകളിലൊന്നിന്റെ സമയം വിപരീതമാക്കൽ അത് മാറ്റുകയും രണ്ടാമത്തെ സിഗ്നലിനൊപ്പം ഓരോ പോയിന്റിലും ഗുണിക്കുകയും ആ ഗുണനഫലം സമന്വയിപ്പിക്കുകയും ചെയ്താൽ ഔട്ട്പുട്ട് രണ്ട് സിഗ്നലുകളുടെ കൺവല്യൂഷൻ ആയി ലഭിക്കും നമ്മൾ എങ്ങനെ ദൃശ്യവൽക്കരിക്കും ഒരു ഉദാഹരണം എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആശയം മനസ്സിലാക്കാൻ കഴിയും നമുക്ക് രണ്ട് ഫംഗ്ഷനുകളുണ്ടെന്ന് വിചാരിക്കുക ഒന്ന് ഇതുപോലെയുള്ളയതാണെന്നും രണ്ടാമത്തേത് ഇതുപോലെയുള്ളയതാണെന്നും പറയാം രണ്ട് സിഗ്നലുകളുടെ കൺവല്യൂഷൻ എന്നാൽ സിഗ്നലുകളിലൊന്നിന്റെ സമയം വിപരീതമാക്കുക എന്നതിനർത്ഥം നിങ്ങൾ ആ സിഗ്നൽ മടക്കുന്നു എന്നാണ് നിങ്ങൾ ആ സിഗ്നൽ മടക്കുകയാണെങ്കിൽ ആ സിഗ്നലിന്റെ മിറർ ഇമേജ് നിങ്ങൾ എടുക്കുകയാണ് ഇത് ഇതുപോലെയാകും അത് മാറ്റുന്നു മാറ്റുന്നു എന്നതിനർത്ഥം നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയും കാരണം ഇത് സമയവുമായി ബന്ധപ്പെട്ട് വ്യത്യാസപ്പെട്ടിരിക്കും മാത്രമല്ല നമ്മൾ ഈ സിഗ്നൽ ആക്സിലുടനീളം മാറ്റുന്നത് തുടരുകയും ഓരോ പോയിന്റിലും ഈ രണ്ടു സിഗ്നലുകളുടെയും ഗുണനം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ഇന്റഗ്രൽ കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾക്ക് ഗുണനഫലം ലഭിക്കും നമ്മൾ എങ്ങനെ ചെയ്യും നിങ്ങൾ ഇവിടെ സിഗ്നൽ ഇടുന്നുവെന്ന് പറയട്ടെ ഈ പ്രത്യേക സിഗ്നൽ നീങ്ങുന്നു അതിനാൽ ഇത് ഈ വശത്ത് നിന്ന് നീങ്ങുന്നു ഇത് ആക്സിസ് ആണ് അതിനാൽ നിങ്ങൾ മാറ്റുന്നു ഇത് ആണ് തുടർന്ന് നിങ്ങൾ ഈ ഫംഗ്ഷൻ മാറ്റുന്നതിനാൽ നിങ്ങൾ നിർവചിച്ചതുപോലെ അടുത്തതായി നിങ്ങൾ രണ്ടിന്റെയും ഗുണനം എടുത്ത് സംഗ്രഹിക്കണം കാരണം ഇന്റഗ്രൽ എന്നത് ഒരു പ്രത്യേക കാലയളവിൽ ഈ രണ്ട് സിഗ്നലുകളുടെയും ഗുണനഫലത്തെ സംഗ്രഹിക്കുകയല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾ വ്യതിയാനം ചെയ്യുമ്പോൾ നമുക്ക് അക്ഷം എടുത്ത് അത് എങ്ങനെ കൂടിച്ചേരുന്നുവെന്ന് നോക്കാം അതിനാൽ ഒരു പ്രത്യേക സമയത്ത് സിഗ്നൽ ഇതുപോലെയാകും നിങ്ങൾക്ക് മൊത്തം ഗുണനഫലം കിട്ടും ഇതുപോലുള്ള ഗുണനഫലത്തിന്റെ ആകെത്തുക ഈ വിസ്തീർണ്ണമായിരിക്കും പിന്നീട് കുറച്ചു സമയത്തിന് ശേഷം ഇത് ഇതുപോലെയാകും ശരിയാണ് കുറച്ച് സമയത്തിന് ശേഷം അത് ഒഴിവായി ഇതുപോലെയാകും ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ സിഗ്നൽ മാറ്റുന്നു നമ്മൾ ഒരെണ്ണം മാത്രമേ മാറ്റുകയുള്ളൂ രണ്ടാമത്തേത് നിശ്ചലമാണ് അതിനാൽ ലാംബ്ഡയുമായി ബന്ധപ്പെട്ട് നമ്മൾ മാറ്റുകയാണ് ഈ അക്ഷം മാറുകയാണ് ഓരോ പോയിന്റിലും ഗുണനഫലത്തിൻറെ മൂല്യം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു നിങ്ങൾ സമന്വയിപ്പിക്കുക എന്നതിനർത്ഥം നിങ്ങൾ എല്ലാ ഗുണനഫലങ്ങളും സംഗ്രഹിക്കുകയാണെന്നും നിങ്ങൾ വീണ്ടും മറ്റൊരു സ്ഥലം എടുക്കുകയും ഗുണനഫലം കണ്ടെത്തുകയും ചെയ്യുന്നു എന്നുമാണ് അവസാനമായി നിങ്ങൾ ഈ രണ്ട് ഫംഗ്ഷനുകളുടെയും ഗുണനഫലവും ഇന്റഗ്രേഷനും കണ്ടെത്തിയാൽ ഇത് ഇതുപോലെയാകാം അതിനാൽ ഇത് ഈ രണ്ട് സിഗ്നലുകളുടെയും ഒരു കൺവല്യൂഷൻ ആയി കണക്കാക്കും അടിസ്ഥാനപരമായി രണ്ട് ഫംഗ്ഷനുകൾക്കിടയിൽ കൺവല്യൂഷൻ ഇന്റഗ്രൽ പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് ഇതാണ് ഈ പ്രഭാഷണത്തിൽ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതൽ വിശദമായി ചർച്ചചെയ്യും കൂടാതെ കുറച്ച് ഉദാഹരണങ്ങളുടെ സഹായത്തോടെ മനസിലാക്കാൻ നമ്മൾ ശ്രമിക്കും അങ്ങനെ കൺവല്യൂഷൻ ഇന്റഗ്രൽ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമാകും ഇപ്പോൾ കൺവല്യൂഷൻ ഇന്റഗ്രൽ പൊതുവായ ഒന്നാണ് ഇത് ഏത് ലീനിയർ സിസ്റ്റത്തിനും ബാധകമാണ് സിസ്റ്റത്തിന് രണ്ട് സവിശേഷതകളുണ്ടെന്ന് അനുമാനിച്ചാൽ കൺവല്യൂഷൻ ഇന്റഗ്രൽ ലളിതമാക്കാൻ കഴിയും അതിനാൽ ഈ രണ്ട് സവിശേഷതകൾ എന്തൊക്കെയാണ് ഒന്നാമത്തേത് പൂജ്യത്തേക്കാൾ കുറവായ സമയത്തിന് പൂജ്യമാണ് അതിനർത്ഥം ഇപ്പോൾ മൈനസ് അനന്തത മുതൽ അനന്തത വരെയുള്ള നിങ്ങളുടെ സംയോജനം പൂജ്യം മുതൽ അനന്തത വരെയുള്ള സംയോജനത്തിലേക്ക് ചുരുങ്ങും എന്നാണ് നമുക്ക് ഉപയോഗിക്കാനാകുന്ന രണ്ടാമത്തെ സവിശേഷത സിസ്റ്റങ്ങളുടെ ഇംപൾസ് പ്രതികരണം ഹേതുകമായത് ആണ് അതിനർത്ഥം പൂജ്യത്തേക്കാൾ കുറവുള്ള ഏത് സമയത്തും എന്നാണ് അതിനാൽ ഈ സവിശേഷത നിലനിൽക്കുകയാണെങ്കിൽആയിരിക്കണം അല്ലെങ്കിൽ ക് മുകളിലുള്ള സമവാക്യം ഇപ്പോൾ കൺവല്യൂഷനായി മാറും കാരണം ആയ ഏത് മൂല്യത്തിനും ഇത് 0 ആയിത്തീരും ഫംഗ്ഷനുകൾക് ഈ 2 ഗുണങ്ങൾ ഉണ്ടാവുമ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ പൂജ്യത്തേക്കാൾ കുറവുള്ള ഏത് സമയത്തും 0 ആയിരിക്കും രണ്ടാമത്തേത് കോസൽ ആണെങ്കിൽ അത് 0 ആയിരിക്കും അങ്ങനെ നമുക്ക് കുറച്ച ഇന്റഗ്രൽ ലഭിക്കും കൺവല്യൂഷൻ ഇന്റഗ്രലിന്റെ ചില സവിശേഷതകൾ ഇപ്പോൾ നമുക്ക് നോക്കാം ഇത് നിലവിലെ വിഷയത്തിന്റെ പരിധിയില്ലാത്തതിനാൽ നമ്മൾ അത് ഉരുത്തിരിയാൻ പോകുന്നില്ല എന്നാൽ നമ്മൾ ഈ പ്രത്യേക കോഴ്സിൽ മുന്നോട്ടു പോകുമ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് സവിശേഷതകൾ ഓർമ്മിക്കേണ്ടതാണ് ആദ്യ സവിശേഷത h x എന്നിവയുടെ കൺവല്യൂഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് അതായത് അതായത് നിങ്ങൾക്ക് hx എന്നിവയുടെ സ്ഥാനങ്ങൾ കൈമാറാൻ കഴിയും ഒപ്പം കൺവല്യൂഷൻ ഇന്റഗ്രൽ നിലനിൽക്കും രണ്ടാമത്തേത് വിഭാജകമായ സവിശേഷത ആണ്

ഇപ്പോൾ മൂന്നാമത്തേത് സാഹചര്യനിയമം ആണ് ഇത് അസ്സോസിയേറ്റീവ് ആയതിനാൽ കൺവല്യൂഷൻ ഇന്റഗ്രൽ ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ഏതെങ്കിലും രീതി ഉപയോഗിക്കാം അടുത്തത് യൂണിറ്റ് ഇംപൾസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഫംഗ്ഷൻ കൺവോൾവ് ചെയ്യുമ്പോൾ ഉളള സവിശേഷത ആണ് അതുപോലെ ടൈം ഷിഫ്റ്റ് ഇംപൾസ് ഫംഗ്ഷനായ ഉപയോഗിച്ച് നിങ്ങൾ കൺവോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയി ലഭിക്കും അടുത്തതായി യൂണിറ്റ് ഇംപൾസിന്റെ വ്യുൽപ്പന്നം യോട് കൂടി കൺവല്യൂഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയി ലഭിക്കും ഇപ്പോൾ നിങ്ങൾ യൂണിറ്റ് സ്റ്റെപ്പ് ഉപയോഗിച്ച് f ന്റെ കൺവല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ആയിരിക്കും വിവിധ സർക്യൂട്ട് ആശയങ്ങളിൽ കൺവല്യൂഷൻ ഇന്റഗ്രൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തുടർന്നും ഉപയോഗിക്കുന്ന പ്രധാന സവിശേഷതകളാണിവ കൺവല്യൂഷൻ ഇന്റഗ്രലിനെ എങ്ങനെ വിലയിരുത്താമെന്ന് മനസിലാക്കുന്നതിനുമുമ്പ് ലാപ്ലേസ് പരിവർത്തനവുമായി കൺവല്യൂഷൻ ഇന്റഗ്രൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ആദ്യം മനസിലാക്കാം നിങ്ങൾക്ക് എന്നിങ്ങനെ രണ്ട് ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിൽ ആ രണ്ട് സമയത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്ന ഫംഗ്ഷനുകളുടെ ലാപ്ലേസ് പരിവർത്തനം എന്നിവയാണെന്ന് കരുതുക അവയുടെ കൺവല്യൂഷൻ ലാപ്ലേസ് പരിവർത്തനം എടുക്കുന്നു ഇതിനർത്ഥം എന്നിവയുടെ കൺവല്യൂഷന്റെ ലാപ്ലേസ് പരിവർത്തനം എന്നിവയുടെ ലളിതമായ ഗുണനമാണ് ഈ ആശയം ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ ന്യായീകരിക്കാമെന്ന് നോക്കാം അതിനാൽ എന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം അതിനാൽ നിങ്ങൾ ഇത് പോലെ നിർവചിക്കും ഇപ്പോൾ നിങ്ങൾ ഫംഗ്ഷന്റെ ലാപ്ലേസ് എടുക്കുകയാണെങ്കിൽ

ഉപയോഗിച്ച് ഇത് ഗുണിച്ചാൽ ലഭിക്കും ഇപ്പോൾ നിങ്ങൾ ടൈം ഷിഫ്റ്റ് പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനെ ഇങ്ങനെ പരിവർത്തനം ചെയ്യാൻ കഴിയും

ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇത് വരെ നിലനിൽക്കും ആകുമ്പോൾ ഈ ഫംഗ്ഷൻ പൂജ്യമാകും അതിനാൽ നിങ്ങൾക്ക് ഇന്റഗ്രലിൻറെ രീതിയിൽ എന്താണ് എഴുതാൻ കഴിയുന്നത് ആദ്യം നമ്മൾ ഇന്റഗ്രേഷന്റെ ക്രമം പരസ്പരം മാറ്റുന്നു അതിനാൽ ഇപ്പോൾ അത് 0 മുതൽ ഇൻഫിനിറ്റി വരെ ആകും രണ്ടാമത്തെ ഇന്റഗ്രലിൽ യൂണിറ്റ് സ്റ്റെപ്പ് ടൈം ഷിഫ്റ്റ് ഫംഗ്ഷൻ കാരണം ഇത് പൂജ്യത്തിനും ടി നും ഇടയിലാണെന്ന് നമ്മൾ പറയും കൂടാതെ ഇത് f1 f2dt ആണെന്ന് നമ്മൾ പറയും നമ്മൾ രണ്ടാമത്തെ ഇന്റഗ്രലിനായി പുറത്തെടുക്കും അതിനാൽ നിങ്ങൾക്ക് ഈ പ്രത്യേക രൂപത്തിൽ ഈ പ്രത്യേക പദപ്രയോഗം പുനക്രമീകരിക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ഈ സമവാക്യം കണ്ടാൽ ഇത് എന്നിവയുടെ കൺവല്യൂഷൻ അല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ അതിനെ f1 f2 എന്നിവയുടെ കൺവല്യൂഷൻ ആയി പ്രതിനിധീകരിക്കാം തുടർന്ന് ബാഹ്യ ഇന്റഗ്രൽ f1f2 എന്നിവയുടെ കൺവല്യൂഷന്റെ ലാപ്ലേസ് അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നിങ്ങൾക്ക് എന്ന് എഴുതാൻ കഴിയും അത് f1f2 എന്നിവയുടെ കൺവല്യൂഷന്റെ ലാപ്ലേസ് അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ടൈം ഡൊമെയ്നിലെ കൺവല്യൂഷൻ എസ് ഡൊമെയ്നിലെ ഗുണനത്തിന് തുല്യമാണെന്ന് നിങ്ങൾക്ക് ലളിതമായി പറയാൻ കഴിയും പദങ്ങൾ പുനക്രമീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ലഭിക്കും f1 f2 എന്നിവയുടെ സംയോജനം എസ് ഡൊമെയ്നിലെ ഗുണനമാണ് എന്ന് സമർത്ഥിക്കുകയും ചെയ്യാം ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം അതുവഴി ഈ പ്രത്യേക ആശയം നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും 5 മുകളിലുള്ള സവിശേഷത പ്രയോഗിക്കുമ്പോൾ hx എന്നിവയുടെ കൺവല്യൂഷൻ ന്റെ വിപരീത ലാപ്ലേസ് പരിവർത്തനമാണെന്നും നമുക്ക് കാണാം H ആയി മാറുന്നു കാരണം ഇത് hയുടെ ലാപ്ലേസ് പരിവർത്തനമാണ് അതുപോലെ X എന്നത് യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോർമല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നിങ്ങൾക്ക് ഇത് എന്ന് എഴുതാം ഇപ്പോൾ നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലെ പദം പുനക്രമീകരിക്കുകയാണെങ്കിൽ ആയിരിക്കും സ്ക്വയർ ബ്രാക്കറ്റിൽ ഉള്ള പദത്തിന്റെ വിപരീത ലാപ്ലേസ് പരിവർത്തനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് ആയി മാറും അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് 5 ഇവയുടെ കൺവല്യൂഷൻ ആണെന്ന് പറയാൻ കഴിയും ആയിരിക്കുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും അതിനാൽ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൺവല്യൂഷന്റെ ലാപ്ലേസ് പരിവർത്തനം പ്രയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരം ലഭിക്കുമെന്ന് കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ കണക്കാക്കിയ ഈ സവിശേഷതയുമായി ബന്ധപ്പെട്ട് നാം ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കാരണം മുമ്പത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ട രണ്ട് സിഗ്നലുകളുടെ കൺവല്യൂഷൻ ലളിതമാണെന്ന് തോന്നുമെങ്കിലും ചിലപ്പോൾ വിപരീത ലാപ്ലേസ് പരിവർത്തനം കണ്ടെത്തുന്നത് കഠിനമായിരിക്കാം എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് എന്നിവയുടെ ഗുണനഫലം സങ്കീർണ്ണമായാൽ ലാപ്ലേസ് പരിവർത്തനം ഉപയോഗിച്ച് കൺവല്യൂഷൻ എന്ന ആശയം ഉപയോഗിക്കാൻ പ്രയാസമാണ് അപ്പോൾ നിങ്ങൾ എന്തുചെയ്യും നിങ്ങൾ ചില ഇതര സാങ്കേതികത ഉപയോഗിക്കും മറ്റൊരു കാര്യം എന്നിവ ചില പരീക്ഷണാത്മക ഡാറ്റയുടെ രൂപത്തിൽ ലഭ്യമാകുമ്പോൾ ഈ രണ്ട് ഫംഗ്ഷനുകളുടെയും വ്യക്തമായ ലാപ്ലേസ് പരിവർത്തനം ലഭ്യമല്ല എന്നതാണ് ഈ പ്രത്യേക അവസ്ഥ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നിവയുടെ ലാപ്ലേസ് പരിവർത്തനം നേടാനാകില്ല തുടർന്ന് ലാപ്ലേസ് പരിവർത്തനം ഗുണനഫലം ഉപയോഗിച്ച് f1f2 എന്നിവയുടെ കൺവല്യൂഷൻ ലഭിക്കുന്നത് ബുദ്ധിമുട്ടാണ് അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് സമയ ഡൊമെയ്നിൽ രണ്ട് സിഗ്നലുകളുടെ കൺവല്യൂഷൻ കണ്ടെത്തുന്നതിന് ഗ്രാഫിക്കൽ സമീപനം എന്ന് വിളിക്കുന്ന ഇതര സമീപനം നിങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് എന്താണ് ഗ്രാഫിക്കൽ നടപടിക്രമം ഗ്രാഫിക്കൽ നടപടിക്രമം പറയുന്നത് രണ്ട് ഫംഗ്ഷനുകളുടെ കൺവല്യൂഷൻ ഇന്റഗ്രൽ കണ്ടെത്തുന്നതിന് നമ്മൾ ചുവടെ വിവരിക്കുന്ന നാല് ഘട്ടങ്ങൾ പാലിക്കണം എന്നാണ് ആദ്യം മടക്കുക മടക്കുക എന്നതിനർത്ഥം നിങ്ങൾ ഓർഡിനേറ്റ് അക്ഷത്തിൽ hλ യുടെ മിറർ ഇമേജ് എടുത്ത് h λ യുടെ മൂല്യം നേടും എന്നാണ് ഇപ്പോൾ നിങ്ങൾ ഫംഗ്ഷൻ സ്ഥാനമാറ്റം ചെയ്യണം അതിനർത്ഥം ലഭിക്കുന്നതിന് h λ ഷിഫ്റ്റ് ചെയ്യുകയോ കാലതാമസം വരുത്തുകയോ ചെയ്യുക ഇപ്പോൾ അടുത്ത ദൌത്യം y ലഭിക്കാൻ നിങ്ങൾ h t λ x λ എന്നിവയുടെ ഗുണനഫലം കണ്ടെത്തുകയും ഒരു നിശ്ചിത സമയത്തേക്ക് 0 λ t വരെ സമാകലനം ചെയ്യുകയും h t λ x λ എന്ന ഗുണനഫലത്തിന് കീഴിലുള്ള വ്യാപ്തി കണക്കാക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് ഒടുവിൽ y യുടെ മൂല്യം ലഭിക്കും ഇപ്പോൾ ഒന്നാം ഘട്ടത്തിലെ മടക്കുക എന്ന പ്രവർത്തനമാണ് കൺവല്യൂഷൻ എന്ന പദത്തിന്റെ കാരണം അതിനാൽ ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ ചർച്ച ചെയ്തത് മടക്കുക എന്നാൽ മിറർ ഇമേജ് എടുക്കുകയല്ലാതെ മറ്റൊന്നും അല്ല ഇതാണ് ഈ ഇന്റഗ്രലിനെ കൺവല്യൂഷൻ ഇന്റഗ്രൽ എന്ന് വിളിക്കാനുള്ള കാരണം ഇപ്പോൾ h t λ ഫംഗ്ഷൻ x λയ്ക്ക് മുകളിലൂടെ സ്കാൻ ചെയ്യുന്നു അല്ലെങ്കിൽ സ്ലൈഡുചെയ്യുന്നു ഇതാണ് നമ്മൾ ചർച്ച ചെയ്ത ഉദാഹരണത്തിൽ കണ്ടത് നിങ്ങൾ നൽകിയ സിഗ്നലിനു മുകളിലൂടെ സ്ലൈഡുചെയ്യുമ്പോൾ ഓരോ പദത്തിന്റെയും ഗുണനഫലം എടുക്കുകയും പിന്നീട് അത് സമന്വയിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇന്റഗ്രലിന്റെ മൂല്യം ലഭിക്കും അന്തിമ ഇന്റഗ്രൽ ലഭിക്കുന്നതിന് xλയ്ക്ക് മുകളിലൂടെ സ്കാൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യുന്ന ഷിഫ്റ്റിംഗ് ഫംഗ്ഷൻ നിങ്ങൾ ഉപയോഗിക്കും എന്നാണ് ഇതിനർത്ഥം അതിനാൽ ഈ സൂപ്പർ പൊസിഷൻ നടപടിക്രമം കണക്കിലെടുക്കുമ്പോൾ ഇത് xλയ്ക്ക് മുകളിലുള്ള ht λ ഫംഗ്ഷന്റെ സൂപ്പർപൊസിഷനും ആയതിനാൽ കൺവല്യൂഷൻ ഇന്റഗ്രൽ സൂപ്പർപൊസിഷൻ ഇന്റഗ്രൽ എന്നും അറിയപ്പെടുന്നു അതിനാൽ സൂപ്പർപൊസിഷൻ നടപടിക്രമവും അടങ്ങിയിരിക്കുന്നതിനാൽ കൺവല്യൂഷൻ ഇന്റഗ്രലിനെ സൂപ്പർ പൊസിഷൻ ഇന്റഗ്രൽ എന്നും വിളിക്കാമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും അതിനാൽ നാല് ഘട്ടങ്ങൾ പ്രയോഗിക്കുന്നതിന് x λ h t λ എന്നിവ വരയ്ക്കേണ്ടത് ആവശ്യമാണ് ഗ്രാഫിക്കൽ സമീപനത്തിനായി നമുക്ക് രണ്ട് ഫംഗ്ഷനുകളും വരയ്ക്കാം എന്നും xy അക്ഷങ്ങളിൽ രണ്ട് ഫംഗ്ഷനുകളും പ്ലോട്ട് ചെയ്യാമെന്നും x എന്ന യഥാർത്ഥ ഫംഗ്ഷനിൽ നിന്ന് x λ നേടാമെന്നും അർത്ഥമാക്കണം ഇതിനായി tയെ എന്ന ഡമ്മി വേരിയബിൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു ht λ വരയ്ക്കുന്നത് കൺവല്യൂഷൻ പ്രക്രിയയുടെ താക്കോലാണ് കാരണം ഇതിൽ ലംബ അക്ഷത്തിൽ hλ പ്രതിഫലിപ്പിക്കുകയും അത് t സമയം മാറ്റുകയും ചെയ്യുന്നു അതിനാൽ വിശകലനപരമായി hലെ ഓരോ tയും ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ച് നമ്മൾ ht λ കണ്ടെത്തുന്നു കൺവല്യൂഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയതിനാൽ ഘട്ടം ഒന്ന് രണ്ട് ഇവയിൽ h യ്ക്ക് പകരം x പ്രയോഗിക്കുന്നത് ചിലപ്പോൾ കൂടുതൽ സൌകര്യപ്രദമാണ് അതിനാൽ നമ്മൾ x h എന്നീ ഫംഗ്ഷനുകൾ നോക്കണം കൂടാതെ xh എന്നിവയുടെ സ്കെച്ച് മനസിലാക്കുന്നതിലൂടെ നമുക്ക് ഏത് മടക്കണമെന്നും ഏത് മറ്റൊന്നിന് മുകളിലൂടെ സ്ലൈഡുചെയ്യുണമെന്നും നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകും അതിനാൽ മുമ്പത്തെ കേസിലെന്നപോലെ ഈ പ്രത്യേക ഫംഗ്ഷൻ നമ്മൾ മടക്കുന്നു നമ്മൾ ഇത് നടത്തിയിരുന്നെങ്കിൽ ഒറിജിനലും മടക്കിയ ഫംഗ്ഷനും തമ്മിൽ വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല മാത്രമല്ല നമുക്ക് ഇത് വിശദീകരിക്കാൻ കഴിയില്ല അതിനാലാണ് ഞാൻ ഈ ഫംഗ്ഷൻ മടക്കിയത് അതുപോലെ ഗ്രാഫിക്കൽ സമീപനം ഉപയോഗിച്ച് നിങ്ങൾ കൺവല്യൂഷൻ കണക്കാക്കുമ്പോൾ മടക്കുന്നതിന് ഏറ്റവും മികച്ചത് ഏതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ഗ്രാഫിക്കൽ സമീപനം ഉപയോഗിക്കുമ്പോൾ ഇത് എല്ലായ്പ്പോഴും ഓർമ്മിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം എടുക്കും അതിനാൽ നമുക്ക് എന്തുചെയ്യാൻ കഴിയും ഈ ഘട്ടത്തിൽ നമുക്ക് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം അടുത്ത പ്രഭാഷണത്തിലും കൺവല്യൂഷൻ ഇന്റഗ്രൽ സംബന്ധിച്ച ചർച്ച തുടരും